ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ടെസ്റ്റിംഗിലെ അടിസ്ഥാന ആശയങ്ങൾ പരിശോധിച്ചു പിന്നെ പിന്നീട് ഞങ്ങൾ യൂണിറ്റ് ടെസ്റ്റിംഗ് ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്നിവ നോക്കി കൂടാതെ അവിടെയുള്ള പ്രധാന ലക്ഷ്യം ഒരു യൂണിറ്റിൽ നിന്ന് കഴിയുന്നത്ര തകരാറുകൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു കൂടാതെ ഒരു യൂണിറ്റിന്റെ ഡെഫിനീഷൻ വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ആകാം ഒരു യൂണിറ്റ് ഒരിക്കൽ എല്ലാ യൂണിറ്റുകളും പൂർണ്ണമായി പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റേഗ്രേഷൻ ടെറ്റസിങ് നടത്തുന്നു കൂടാതെ വിവിധ യൂണിറ്റുകളുടെ ഇന്റർഫേസുകളിലെ തകരാറുകൾ നീക്കം ചെയ്യുക എന്നതാണ് ഇന്റേഗ്രേഷൻ പരിശോധനയ്ക്ക് പിന്നിലെ പ്രധാന പ്രചോദനം കൂടാതെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അവസാനിച്ചതിനുശേഷം സിസ്റ്റം ടെസ്റ്റിംഗ് ഏറ്റെടുക്കുന്നു അവിടെ മുഴുവൻ സിസ്റ്റവും മൊത്തത്തിൽ പരീക്ഷിക്കപ്പെടുന്നു കൂടാതെ ഇവിടെ SRS രേഖയ്ക്കെതിരെയാണ് ടെസ്റ്റിങ് നടത്തുന്നത് ഇതുവരെ യൂണിറ്റും ഇന്റേഗ്രേഷൻ പരിശോധനയും ഡിസൈൻ ഡോക്യുമെന്റ് അനുസരിച്ച് യൂണിറ്റും ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗും ശരിയാണോ എന്ന് ഇത് പരീക്ഷിക്കപ്പെടുന്നു അതിനാൽ യൂണിറ്റും ഇന്റേഗ്രേഷൻ ടെസ്റ്റിങും വേരിഫിക്കേഷൻ ടെക്നികുകൾ എന്നറിയപ്പെടുന്നു സിസ്റ്റം ടെസ്റ്റിംഗ് ഉപഭോക്താവിന് കൈമാറേണ്ട അവസാന സോഫ്റ്റ്വെയർ SRS ഡോക്യുമെന്റിനെതിരെ പരീക്ഷിക്കുന്നത് സിസ്റ്റം ടെസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ സിസ്റ്റം ടെസ്റ്റിംഗിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷനിൽ ആരാണ് ടെസ്റ്റിങ് നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ച് മൂന്ന് തരം സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ടെന്ന് കസ്റ്റമർ സൈറ്റിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിനെ ആൽഫാ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു ക്ഷമിക്കണം ഇത് ഡെവലപ്പർ സൈറ്റ് ചെയ്തതാണെങ്കിൽ അത് ആൽഫ ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നു ചില സൌഹൃദ ഉപഭോക്താക്കളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് ബീറ്റ ടെസ്റ്റിംഗ് എന്നും ഉപഭോക്താവ് സ്വയം ചെയ്തതാണെങ്കിൽ അത് ആക്സപ്പ്ടെൻസ് ടെസ്റ്റിങ് എന്നും അറിയപ്പെടുന്നു അതിനാൽ എല്ലാ സിസ്റ്റം പരിശോധനകളിലും അടിസ്ഥാനപരമായി രണ്ട് തരം ടെസ്റ്റുകൾ നടക്കുന്നു ഫംഗ്ഷനാലിറ്റി SRS ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയതുപോലെ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു കൂടാതെ ഫംഗ്ഷനാലിറ്റിയെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗായി പരിശോധിക്കുന്നു കാരണം ഇവ ഫംഗ്ഷനുകളുടെ സ്പെസിഫിക്കേഷൻ ആണ് കൂടാതെ ഒരു ഫംഗ്ഷനു വേണ്ടി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാലിറ്റി പരിശോധനയ്ക്കായി ഈ സാങ്കേതികവിദ്യകളെല്ലാം ഇവിടെ ബാധകമാണ് ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്ത മറ്റ് വിഭാഗം പരിശോധനകൾ യൂണിറ്റിലോ ഇന്റേഗ്രേഷൻ പരിശോധനയിലോ പേർഫോമെൻസ് പരിശോധനകളല്ല SRS ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ സിസ്റ്റത്തിന്റെ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് പരിശോധിക്കുന്നതിനാണ് പേർഫോമെൻസ് പരിശോധനകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ നടത്തിയ വിവിധതരം പേർഫോമെൻസ് പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്ത ബ്ലാക്ക് ബോക്സ് ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് അൽപ്പം ആഴത്തിൽ നോക്കും കൂടാതെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് കേസുകൾ സിസ്റ്റം ടെസ്റ്റിംഗിനായി എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് ഞങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതില്ല കാരണം അതേ ആശയങ്ങൾ ഇവിടെ ബാധകമാണ് സിസ്റ്റം ടെസ്റ്റിംഗിനെക്കുറിച്ചും സിസ്റ്റം ടെസ്റ്റിംഗിൽ ഉൾപ്പെടുന്ന പേർഫോമെൻസ് പരിശോധനകളെക്കുറിച്ചും നമുക്ക് ഇവിടെ നോക്കാം ഒരു സിസ്റ്റത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന നിരവധി പെർഫോമെൻസ് പരിശോധനകൾ ഉണ്ട് പക്ഷേ അവയെല്ലാം നടപ്പാക്കേണ്ടതില്ല സോഫ്റ്റ്വെയറിനായി വ്യക്തമാക്കിയ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് എന്താണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് ഞങ്ങൾ നോക്കുന്നു കൂടാതെ സിസ്റ്റത്തിനായി വ്യക്തമാക്കിയതിനെ അടിസ്ഥാനമാക്കി ഈ വിവിധ പെർഫോമെൻസ് പരിശോധനകളിൽ ചിലത് അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ നടത്തേണ്ടതുണ്ട് സ്ട്രെസ്സ് പരിശോധനകൾ സ്ട്രെസ് ടെസ്റ്റുകളെ എൻഡ്യൂറെൻസ് ടെസ്റ്റിങ് എന്നും വിളിക്കുന്നു സോഫ്റ്റ്വെയറിന്റെ സ്ട്രെസ്സ് ശേഷി അറിയാൻ ഞങ്ങൾ അസാധാരണമായ ഇൻപുട്ടുകൾ നൽകുന്നു അസാധാരണമായ ഇൻപുട്ട് വഴി ഞങ്ങൾ SRS ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയതിനപ്പുറം അർത്ഥമാക്കുന്നു ഞാൻ ഇത് ആവർത്തിക്കട്ടെ കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് സ്ട്രെസ് ടെസ്റ്റിംഗിൽ SRS ഡോക്യുമെന്റിനായി വ്യക്തമാക്കിയതിലും അപ്പുറമുള്ള സോഫ്റ്റ്വെയറിന് ഞങ്ങൾ ഇൻപുട്ട് നൽകുന്നു ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയറിനായുള്ള ഡാറ്റാബേസിന്റെ വലുപ്പം വ്യക്തമാക്കിയതിനേക്കാൾ കൂടുതൽ ഡാറ്റ വോളിയം ഞങ്ങൾ നൽകിയേക്കാം ഇത് നൂറ് ആയിരം രേഖകൾ വ്യക്തമാക്കിയാൽ നമുക്ക് നൂറ് ഇരുപതിനായിരം രേഖകൾ നൽകാം ഇൻപുട്ട് ഡാറ്റ നിരക്ക് അതിനാൽ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യേണ്ട ഡാറ്റ നിരക്ക് സെക്കൻഡിൽ 100 കിലോ ബൈറ്റുകളാണെങ്കിൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും അസാധാരണ പ്രതികരണം ഉണ്ടോയെന്ന് പരിശോധിക്കാൻ നമുക്ക് സെക്കൻഡിൽ 110 കിലോ ബൈറ്റുകൾ ഉപയോഗിച്ച് പരിശോധിക്കാം നിർദ്ദിഷ്ട ഡാറ്റ നിരക്ക് ചെറുതായി കവിഞ്ഞാൽ സിസ്റ്റം തകരാറിലാകുമോ ഇത് വളരെ അസ്വീകാര്യമായി എന്തെങ്കിലും പെരുമാറുന്നുണ്ടോ കാരണം വ്യക്തമാക്കിയതിലും അപ്പുറമുള്ള ഇൻപുട്ട് ഞങ്ങൾ നൽകുകയാണെങ്കിൽ സിസ്റ്റം ഒരു ഡീഗ്രേഡഡ് പെർഫോമെൻസ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അത് ക്രാഷ് അല്ലെങ്കിൽ ഹാംഗ് പോലുള്ള പെർഫോമെൻസ് ഡിസ്കൺട്ടിനുവിറ്റി എന്നതിനേക്കാൾ ഡീഗ്രേഡഡ് പെർഫോമെൻസ് ആയിരിക്കണം പ്രോസസ്സിംഗ് സമയം പ്രോസസ്സിംഗ് സമയം കുറച്ച് മില്ലിസെക്കൻഡുകൾ ആയിരിക്കണമെങ്കിൽ നമ്മൾ മെമ്മറിയുടെ ഉപയോഗം മുതലായവയേക്കാൾ അല്പം കൂടുതൽ നൽകാം അതിനാൽ ഇവ രൂപകൽപ്പന ചെയ്ത ശേഷിക്ക് അപ്പുറത്തേക്ക് പരീക്ഷിക്കപ്പെടുന്നു അതിനാൽ സ്ട്രെസ് ടെസ്റ്റിംഗ് എന്നത് SRS ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയതിലും അപ്പുറമുള്ള ഇൻപുട്ട് നൽകുന്നു സിസ്റ്റം ഗ്രേസ്ഫുള്ളി ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടാതെ ക്രാഷുകൾ അല്ലെങ്കിൽ സിസ്റ്റം ഹാംഗ്സ് മുതലായവയ്ക്ക് ഒരു ഡിസ്കൺട്ടിനുവിറ്റി ഇല്ല അതിനാൽ സ്ട്രെസ്സ് പരിശോധനയിൽ സാധാരണയായി സമയത്തിന്റെയോ വലുപ്പത്തിന്റെയോ ഒരു ഘടകം ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു യൂണിറ്റ് സമയത്തിന് കൈമാറേണ്ട റെക്കോർഡുകളുടെ എണ്ണം ഏത് സമയത്തും ആക്ടിവ് ആയ പരമാവധി ഉപയോക്താക്കളുടെ എണ്ണം ഉദാഹരണത്തിന് എപ്പോൾ വേണമെങ്കിലും പത്ത് ആക്ടിവ് ഉപയോക്താക്കളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കാം ഇപ്പോൾ സ്ട്രെസ് ടെസ്റ്റിംഗ് സമയത്ത് പതിനൊന്ന് ആക്ടിവ് ഉപയോക്താക്കൾ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അൽപ്പം ഡീഗ്രേഡ്ഡ് മോഡിലാണെങ്കിലും സിസ്റ്റം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഒരു ക്രാഷിലോ ഹാംഗിലോ പോകുമോ ഇത് പതിനൊന്ന് ഉപയോക്താക്കളുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പത്ത് എന്നത് നിർദ്ദിഷ്ട ഉപയോക്താക്കളുടെ എണ്ണമാകുമ്പോൾ അല്പം ഡീഗ്രേഡ്ഡ് മോഡിൽ അത് അതിന്റെ സ്ട്രെസ് ടെസ്റ്റിംഗിൽ വിജയിക്കുന്നു അതുപോലെ വ്യക്തമാക്കിയതിനേക്കാൾ അല്പം വലിയ ഡാറ്റ വലുപ്പം ഉപയോഗിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നു കൂടാതെ പല സിസ്റ്റങ്ങൾക്കും സ്ട്രെസ് ടെസ്റ്റിംഗ് ബാധകമല്ലെന്ന് വ്യക്തമായിരിക്കണം സ്ട്രെസ്സ് പരിശോധനയുടെ ചില ഉദാഹരണങ്ങൾ നോക്കാം പരമാവധി പതിനഞ്ച് മൾട്ടിപ്രോഗ്രാം ചെയ്ത ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞങ്ങൾ പരീക്ഷിക്കുകയാണെന്ന് പറയുക അതിനാൽ സ്ട്രെസ് ടെസ്റ്റിംഗ് പോലെ ഞങ്ങൾ നൽകുന്നു ഒരേസമയം ആരംഭിക്കുന്ന പതിനഞ്ചിൽ കൂടുതൽ ജോലികൾ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രതികരണം എന്താണ് അതുപോലെ ഒരു റിയൽ ടൈം സിസ്റ്റത്തിൽ ഹൈ പ്രയോരിറ്റി ഉള്ള നിരവധി ഇന്ററപ്പ്റ്റ് ഞങ്ങൾ പരീക്ഷിച്ചേക്കാം അതേസമയം എപ്പോൾ വേണമെങ്കിലും ഒരു ഹൈ പ്രയോരിറ്റി ഇന്ററപ്പ്റ്റ് വരാം അല്ലെങ്കിൽ രണ്ട് ഹൈ പ്രയോരിറ്റി ഇന്ററപ്പ്റ്റ് വരാം എന്ന് വ്യവസ്ഥ രേഖയിൽ ഒരു അനുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സമയം കൂടുതൽ കൂടുതൽ ഹൈ പ്രയോരിറ്റി ഇന്ററപ്പ്റ്റ് വരുന്നതിലൂടെ ഞങ്ങൾ സ്ട്രെസ്സ് ടെസ്റ്റിങ് നടത്തുന്നു മറ്റൊരു തരത്തിലുള്ള സിസ്റ്റം ടെസ്റ്റിങ് ലോഡ് ടെസ്റ്റിംഗ് ആണ് ലോഡ് പരിശോധനയിൽ വ്യത്യസ്ത ലോഡ് സാഹചര്യങ്ങളിൽ സിസ്റ്റത്തിന്റെ പേർഫോമെൻസ് സ്വീകാര്യമാണോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നു അതിനാൽ സ്ട്രെസ്സ് ടെസ്റ്റിങും ലോഡ് ടെസ്റ്റിങും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട് സ്ട്രെസ് ടെസ്റ്റിംഗിൽ SRS ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയതിന് അപ്പുറമുള്ള സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ ഇൻപുട്ട് നൽകുന്നു അതേസമയം ലോഡ് പരിശോധനയിൽ വ്യത്യസ്ത നിർദ്ദിഷ്ട ലോഡുകളിൽ സിസ്റ്റത്തിന്റെ പേർഫോമെൻസ് ഞങ്ങൾ പരിശോധിക്കുന്നു ഒരു ഉദാഹരണം നൽകാൻ ഞങ്ങൾക്ക് ഒരു വെബ് അധിഷ്ഠിത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒരു സെക്കൻഡിൽ 100 ഹിറ്റുകളിൽ റെസ്പോൺസ് സമയം 1 സെക്കൻഡിൽ കുറവായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു സെക്കൻഡിൽ 90 ഹിറ്റുകൾ സെക്കൻഡിൽ 100 ഹിറ്റുകൾ എന്നിങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പരീക്ഷിക്കുന്നത് അതിനാൽ നിർദ്ദിഷ്ട ഇൻപുട്ടുകളുടെ പരിധിക്കുള്ളിൽ സിസ്റ്റം അതിന്റെ ആവശ്യാനുസരണം പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുക കൂടാതെ നിരവധി ലോഡ് ടെസ്റ്റിംഗ് ടൂളുകൾ ഉണ്ട് ഒന്ന് ഓപ്പൺ സോഴ്സ് ടൂൾ അത് വളരെ ജനപ്രിയമാണ് ജെ മീറ്റർ ആണ് അത് അപ്പാച്ചെയിൽ ഡൌൺലോഡ് ചെയ്യാം jakarta dot apache dot org jmeter ഇത് വെബ് അധിഷ്ഠിത ആപ്ലിക്കേഷനുകളുടെ ലോഡ് ടെസ്റ്റിംഗിനായി ഉപയോഗിക്കുന്നു വോളിയം ടെസ്റ്റാണ് മറ്റൊരു പെർഫോമൻസ് ടെസ്റ്റ് വോളിയം ടെസ്റ്റിൽ SRS ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ സിസ്റ്റം വീണ്ടും പരിശോധിക്കുന്നു ഉദാഹരണത്തിന് ഡാറ്റയുടെ വലുപ്പം അതായത് ക്യൂ വലുപ്പം 100 ആണെങ്കിൽ ക്യൂ വലുപ്പം 99 അല്ലെങ്കിൽ 100 ഉള്ളപ്പോൾ അത് കൈകാര്യം ചെയ്യുമോ എന്ന് നമുക്ക് പറയാം അതുപോലെ SRS ഡോക്യുമെന്റിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ സാധ്യമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായത്ര വലുതാണോ അറേകൾ സ്റ്റാക്ക് മുതലായവ ഉദാഹരണത്തിന് ഫീൽഡുകൾ രേഖകൾ ഫയൽ വലുപ്പം മുതലായവ സാധ്യമായ എല്ലാ നിർദ്ദിഷ്ട ഡാറ്റ വോള്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഇവ സ്ട്രെസ്സ് ചെയ്യുന്നു അതിനാൽ ഇത് ഇവിടെ പ്രധാനമാണ് നിർദ്ദിഷ്ട ഡാറ്റ വോള്യങ്ങൾ അതിനാൽ വോളിയം ടെസ്റ്റിങ് നിർദ്ദിഷ്ട ഡാറ്റ അളവിനപ്പുറം ഞങ്ങൾ പരിശോധിക്കില്ല ഞങ്ങൾ അത് വ്യക്തമാക്കുന്നു SRS ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയ ഡാറ്റ വോള്യങ്ങൾ സോഫ്റ്റ്വെയർ ശരിയായി കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ടോ മറ്റൊരു തരം സിസ്റ്റം ടെസ്റ്റ് കോൺഫിഗറേഷൻ ടെസ്റ്റിംഗ് ആണ് കോൺഫിഗറേഷൻ പരിശോധനയിൽ നോക്കുന്നത് വിവിധ കോൺഫിഗറേഷനുകളെ പിന്തുണയ്ക്കുന്നതിനായി നിർമ്മിച്ച സോഫ്റ്റ്വെയറിന് ബാധകമായത് ഉദാഹരണത്തിന് നമുക്ക് സോഫ്റ്റ്വെയറിനായി ഒരു ചെറിയ കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കാം അവിടെ ഒരൊറ്റ ഉപയോക്താവിന് അത് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് ഒന്നിലധികം ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില ഡാറ്റാബേസ് ഉപയോഗിക്കാവുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരിക്കാം അതിനാൽ ഈ ടെസ്റ്റിംഗിന്റെ ലക്ഷ്യം കോൺഫിഗറേഷൻ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ നിർദ്ദിഷ്ട കോൺഫിഗറേഷനുകൾക്കായി സിസ്റ്റം തൃപ്തികരമായി പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു തരത്തിലുള്ള സിസ്റ്റം ടെസ്റ്റിംഗ് കോമ്പറ്റിബിലിറ്റി ടെസ്റ്റിങ് ആണ് SRS ഡോക്യുമെന്റിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളുമായും ഹാർഡ്വെയറുകളുമായും സോഫ്റ്റ്വെയർ ഇന്റർഫേസുകൾ തൃപ്തികരമാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഇവിടെ ടെസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഒരു വെബ് അധിഷ്ഠിത ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം അത് വിവിധ വെബ് ബ്രൌസറുകളിൽ പ്രവർത്തിക്കാൻ ആവശ്യമാണ് അതിനാൽ കോമ്പറ്റിബിലിറ്റി ടെസ്റ്റിങ് നു ഇടയിൽ സോഫ്റ്റ്വെയർ മോസില്ല ഫയർഫോക്സ് മൈക്രോസോഫ്റ്റ് എക്സ്പ്ലോറർ തുടങ്ങിയ വിവിധ വെബ് ബ്രൌസറുകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഒരു കോംപാറ്റിബിലിറ്റി ടെസ്റ്റിംഗിന്റെ മറ്റൊരു ഉദാഹരണം ഒരു സിസ്റ്റം വിവരങ്ങൾ വീണ്ടെടുക്കാൻ ഒരു വലിയ ഡാറ്റാബേസ് സിസ്റ്റവുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ പിന്തുണയ്ക്കേണ്ട വിവിധ വലിയ ഡാറ്റാബേസുകൾ ഞങ്ങൾ പരിശോധിക്കുന്നു തുടർന്ന് റിട്രീവൽ ന്റ്റെ വേഗതയും കൃത്യതയും ഞങ്ങൾ പരിശോധിക്കുന്നു റിക്കവറി ടെസ്റ്റിങ് ആണ് മറ്റൊരു തരം സിസ്റ്റം ടെസ്റ്റ് അതിനാൽ റിക്കവറി ടെസ്റ്റിങ്ൽ സോഫ്റ്റ്വെയർ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു കുറച്ച് വൈദ്യുതി ഡാറ്റ ഉപകരണം തുടങ്ങിയവ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉദാഹരണത്തിന് ചില സോഫ്റ്റ്വെയറുകൾക്കായി ഞങ്ങൾ ഒരു പെൻ ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ടാകാം പെട്ടെന്ന് പെൻ ഡ്രൈവ് ആരെങ്കിലും നീക്കം ചെയ്തു അതിനാൽ സോഫ്റ്റ്വെയർ ഹാങ് ആയോ അതോ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കാൻ ദയവായി പെൻ ഡ്രൈവ് തിരികെ വയ്ക്കുക എന്ന് പറയുമോ അല്ലെങ്കിൽ പവർ ഫെയില്യുർ സഹിക്കാൻ സോഫ്റ്റ്വെയറിനെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാം അതിനാൽ പവർ ഫെയില്യുർ സംഭവിക്കുമ്പോൾ അത് എല്ലാ ഡാറ്റയും നഷ്ടപ്പെടുമോ അതോ പവർ ഫെയില്യുർ സംഭവിക്കുന്നതിന് മുമ്പ് ഡാറ്റ സംരക്ഷിക്കുമോ പിന്നെ പവർ തിരികെ നൽകിയാൽ സിസ്റ്റങ്ങൾ ആ ഡാറ്റ ശരിയായി വീണ്ടെടുക്കുമോ മെയിന്റനൻസ് ടെസ്റ്റാണ് മറ്റൊരു തരം സിസ്റ്റം ടെസ്റ്റ് ഓരോ സോഫ്റ്റ്വെയറിനും വിവിധ തരത്തിലുള്ള മെയിന്റനൻസ് ആവശ്യമാണ് കാരണം ഇത് വളരെക്കാലമായി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് എല്ലാ സോഫ്റ്റ്വെയറുകളിലും ചില ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കാം എന്തെങ്കിലും ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വേഗത കുറയുകയോ ചില പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സോഫ്റ്റ്വെയർ സാധാരണയായി ഡീഫോൾട്ട് കോൺഫിഗറേഷനുകൾ നൽകേണ്ടതുണ്ട് അവിടെ ആർക്കെങ്കിലും സോഫ്റ്റ്വെയർ ഡിഫോൾട്ട് കോൺഫിഗറേഷനിൽ ഉൾപ്പെടുത്താൻ കഴിയും കൂടാതെ ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാമുകൾ ട്രാൻസാക്ഷൻ ട്രെയ്സുകൾ വിവിധ മൊഡ്യൂളുകളിലേക്കുള്ള കണക്റ്റിവിറ്റിയെക്കുറിച്ചുള്ള സ്കീമാറ്റിക് ഡയഗ്രമുകൾ മറ്റ് സോഫ്റ്റ്വെയറുകളിലേക്കും ഹാർഡ്വെയറുകളിലേക്കും കണക്റ്റുചെയ്യേണ്ട രീതി മുതലായവയിൽ ഇത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാകും അതിനാൽ ഇവ സൂക്ഷിക്കുന്ന വിവിധ മെയിന്റനൻസ് പരിശോധനകളാണ് കൂടാതെ ഇവ വിതരണം ചെയ്തിട്ടുണ്ടോ ഇവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ മറ്റൊരു തരം സിസ്റ്റം ടെസ്റ്റ് ആണ് ഡോക്യുമെന്റേഷൻ ടെസ്റ്റ് അതിനാൽ ഈ തരത്തിലുള്ള പരിശോധനയിൽ നൽകിയിരിക്കുന്ന എല്ലാ രേഖകളും സ്ഥിരമാണോ എന്നും അവ നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് കാരണം ടെസ്റ്റിംഗ് ആക്സപ്പ്ടെൻസ് ടെസ്റ്റിങ് എന്നിവ നടത്തുമ്പോൾ ഉപയോക്താവ് ഡോക്യുമെന്റേഷൻ ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട് അവിടെ ഉപയോക്താവ് ഗൈഡുകൾ മെയിന്റനൻസ് ഗൈഡുകൾ ടെക്നികൽ ഡോക്യുമെൻറ് മുതലായവ സ്ഥിരമാണോ എന്ന് ഉപയോക്താവ് പരിശോധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ചില സോഫ്റ്റ്വെയറുകൾക്ക് അവർ വിവിധ തരം ഉപയോക്താക്കളെ പിന്തുണയ്ക്കേണ്ടതായി വന്നേക്കാം ഉദാഹരണത്തിന് വളരെ പുതിയ ഉപയോക്താക്കൾ പരിചയസമ്പന്നരായ ഉപയോക്താക്കൾ തുടങ്ങിയവ കൂടാതെ ആ വിഭാഗത്തിലുള്ള ഉപയോക്താക്കൾക്കായി നൽകിയിട്ടുള്ള രേഖകൾ ആ തരത്തിലുള്ള ഉപയോക്താക്കളുടെ ആവശ്യത്തിന് അനുസരിച്ചാണോ യൂസബിലിറ്റി ടെറ്റസിങ് ആണ് മറ്റൊരു തരം സിസ്റ്റം ടെസ്റ്റിംഗ് അതിനാൽ ഇവിടെ ലക്ഷ്യം യൂസർ ഇന്റർഫേസ് പരിശോധിക്കുക എന്നതാണ് വിവിധ ഡിസ്പ്ലേ സ്ക്രീനുകൾ സന്ദേശങ്ങൾ റിപ്പോർട്ട് ഫോർമാറ്റുകൾ തുടങ്ങിയവ അവ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു കൂടാതെ യൂസർ ഇന്റർഫേസുകളിലെ നാവിഗേഷനും അത് തൃപ്തികരമായി പ്രവർത്തിക്കുന്നുണ്ടോ മെനു തിരഞ്ഞെടുക്കൽ തുടങ്ങിയവ മൌസ് ക്ലിക്കുകൾ ഇവ ശരിയായി രേഖപ്പെടുത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എൻവിരോൺമെന്റ്റൽ ടെസ്റ്റിങ് എന്ന മറ്റൊരു തരം പരിശോധന ജനറൽ സോഫ്റ്റ്വെയറിന് ബാധകമല്ലാത്തത് വ്യത്യസ്ത കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ സോഫ്റ്റ്വെയറിന് ബാധകമായേക്കാം ഉദാഹരണത്തിന് എംബെഡെഡ് സിസ്റ്റംസ് അതിനാൽ എംബെഡെഡ് സിസ്റ്റംസ് നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ വ്യത്യസ്ത ചൂട് ഈർപ്പം രാസ സാന്നിധ്യം പോർട്ടബിലിറ്റി അവസ്ഥകൾ എലക്ട്രിക് മാഗ്നെറ്റിക് ഫീൽഡ് വൈദ്യുതി തടസ്സം മുതലായവയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇവിടെ പരിശോധിക്കുന്നു ഇപ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തുകഴിഞ്ഞാൽ സിസ്റ്റം ടെസ്റ്റുകൾ അതിനാൽ ഡെവലപ്പ്മെന്റ് ടീം അല്ലെങ്കിൽ ഒരു സൌഹൃദ കൂട്ടം നടത്തുന്ന പരീക്ഷയാണ് അത് ബീറ്റ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപഭോക്താവ് തന്നെ ആണെങ്കിൽ അത് ആക്സപ്പ്ടെൻസ് പരിശോധനയാണ് ടെസ്റ്റ് നിരീക്ഷണങ്ങൾ ഒരു ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടിൽ എഴുതണം അതിനാൽ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടിൽ ഞങ്ങൾ എന്താണ് എഴുതുന്നത് ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടിൽ ടെസ്റ്റിൽ സോഫ്റ്റ്വെയറിലേക്ക് പ്രയോഗിച്ച എല്ലാ ടെസ്റ്റുകളുടെയും സമ്മറി ഞങ്ങൾ എഴുതേണ്ടതുണ്ട് അതിനാൽ ഫംഗ്ഷണൽ ടെസ്റ്റിങും പേർഫോമെൻസ് പരിശോധനയും എത്ര ടെസ്റ്റുകൾ പ്രയോഗിച്ചു എത്ര ടെസ്റ്റുകൾ വിജയിച്ചു എത്ര ടെസ്റ്റുകൾ വിജയിച്ചില്ല എത്ര ഡിഗ്രീ പരാജയപ്പെട്ടു യൂസബിലിറ്റി ടെസ്റ്റിൽ ചില ഫീൽഡുകളിൽ നിങ്ങൾ മൌസിൽ രണ്ടുതവണ ക്ലിക്കുചെയ്യേണ്ടതുണ്ട് അതിനാൽ അത് ഒരു ചെറിയ പ്രശ്നമാണ് അല്ലെങ്കിൽ അത് തകരാറിലായോ അതിനാൽ ടെസ്റ്റ് ഒരു പൂർണ്ണമായ പരാജയമാണോ അതോ അപ്രതീക്ഷിതമായ ചില ചെറിയ ഫലങ്ങളാണോ തുടങ്ങിയവ നിരീക്ഷിക്കപ്പെട്ടു അതിനാൽ ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടിലെ ഉള്ളടക്കം അതായിരിക്കണം ഇപ്പോൾ ഓരോ ഡവലപ്പറെയും ഓരോ ടെസ്റ്ററെയും സോഫ്റ്റ്വെയറിന്റെ ഓരോ ഉപയോക്താവിനെയും അലട്ടുന്ന ഒരു പ്രശ്നം നമുക്ക് നോക്കാം സോഫ്റ്റ്വെയറിൽ എത്ര ഒളിഞ്ഞിരിക്കുന്ന ബഗ്ഗുകൾ ഉണ്ട് അതിനാൽ ഒരു ദശലക്ഷം കോഡ് വികസിപ്പിച്ചതായി സോഫ്റ്റ്വെയർ നമുക്ക് പറയാം ഡവലപ്പർമാരുടെ ഒരുപാട് ജോലികൾക്ക് ശേഷം അത് പരീക്ഷിച്ചു ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ നിലവിലുള്ള ബഗുകളുടെയോ തകരാറുകളുടെയോ എണ്ണം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ ശ്രദ്ധാപൂർവ്വമായ വികസനവും ടെസ്റ്റിങും നടത്തിയ ശേഷം ഞങ്ങൾ എങ്ങനെ ഒരു നമ്പർ നൽകും പ്രൊജക്റ്റ് മാനേജർ എങ്ങനെയാണ് ബഗുകൾ ഇപ്പോഴും ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത് അതിനാൽ ഇത് നിർണ്ണയിക്കാനുള്ള ഒരു മാർഗ്ഗത്തെ എറർ സീഡിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ എങ്ങനെയാണ് എറർ സീഡിംഗ് നടത്തുന്നത് സോഫ്റ്റ്വെയറിലെ ബഗുകളുടെ എണ്ണം നിർണ്ണയിക്കാൻ ഇത് എങ്ങനെ സഹായിക്കും ഇവിടെ പ്രധാന ആശയം ടെസ്റ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രോജക്ട് മാനേജർ അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി സോഫ്റ്റ്വെയറിൽ കൃത്രിമമായി ചില ബഗുകൾ അവതരിപ്പിക്കുന്നു എന്നതാണ് അതിനാൽ സോഫ്റ്റ്വെയറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നു അത് അവൻ ട്രാക്ക് ഓഫ് ചെയ്യുന്നു താൻ അവതരിപ്പിച്ച ബഗുകളുടെ തരം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരു അരിതമെറ്റിക് ഓപ്പറേറ്ററെയും ഓപ്പറേറ്ററെ ഒരു മൈനസ് ഓപ്പറേറ്ററിലോ അല്ലെങ്കിൽ കണ്ടീഷനൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലുമോ ഫ്ലിപ്പുചെയ്തിരിക്കാം ലെസ്സ് താൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ നു പകരം ലെസ്സ് താൻ ഓപ്പറേറ്റർ ഇടുകയോ abc എന്നു എഴുതുന്നതിന് പകരം c ഡിലീറ്റ് ചെയ്ത് ab എന്നു മാത്രം എഴുതിയിരിക്കാം അതിനാൽ മാനേജർ സീഡ് ചെയ്യുന്ന ചില ബഗുകൾ ഇവയാണ് എന്നിട്ട് പരിശോധനയുടെ അവസാനം ഈ സീഡഡ് ബഗുകൾ എത്ര കണ്ടെത്തിയെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു അവൻ നൂറ് ബഗുകൾ സീഡ് ചെയ്താൽ നൂറ് ബഗുകളിൽ അവന്റെ സീഡഡ് ബഗുകളിൽ എത്രയെണ്ണം കണ്ടെത്താൻ കഴിയും അതിനാൽ സോഫ്റ്റ്വെയറിൽ നിലവിലുള്ള ബഗുകൾ ഇവയാണെന്ന് നമുക്ക് പറയാം തുടർന്ന് മാനേജർ സോഫ്റ്റ്വെയറിൽ ചില ബഗുകൾ സീഡ് ചെയ്തു അതിനാൽ നിലവിലുണ്ടായിരുന്ന ബഗുകളുടെ പ്രാരംഭ സംഖ്യ ഇത് ക്യാപിറ്റൽ N ആണെന്ന് പറയട്ടെ ഇപ്പോൾ മാനേജർ അവിടെ ഒരു കൂട്ടം ബഗുകൾ സീഡ് ചെയ്തു അർബിട്രറി മാറ്റങ്ങൾ വരുത്തി S ആണ് സീഡഡ് ബഗ്സ് തുടർന്ന് ടെസ്റ്റിങ് നടത്തി പരിശോധനയുടെ അവസാനം അത് ഉണ്ടെന്ന് കണ്ടെത്തി ടെസ്റ്റിംഗ് സമയത്ത് ചെറിയ s എണ്ണം സീഡഡ് ബഗുകളും ചെറിയ n എണ്ണം ബഗുകളും ഉണ്ടായിരുന്നു അവ പരീക്ഷണത്തിലൂടെയും കണ്ടെത്തി അതിനാൽ കണ്ടെത്തിയ ബഗുകൾ ഇവയാണ് സീഡഡ് ബഗുകളും സീഡ് ചെയ്യാത്ത ബഗുകളും അപ്പോൾ ഞങ്ങൾ ഒരു ലളിതമായ അനുമാനം ഉണ്ടാക്കുന്നു നിലവിലുള്ള ബഗുകളിൽ ചെറിയ n കണ്ടെത്തിയാൽ അത് s S ന് തുല്യമായിരിക്കണം അതിനാൽ ഞങ്ങൾ ഇവിടെ ക്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ടെസ്റ്റിംഗ് അതേ അനുപാതത്തിൽ റീജിയണൽ ബഗുകളും സീഡഡ് ബഗുകളും തിരിച്ചറിയുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു കൂടാതെ ഈ എക്സ്പ്രെഷനിൽ നിന്ന് ബാക്കിയുള്ള ബഗുകൾ നമുക്ക് ലഭിക്കും N n n s അതിനാൽ സോഫ്റ്റ്വെയറിൽ ക്രമീകരിക്കുന്ന ബഗുകളുടെ എണ്ണത്തിന്റെ വളരെ ഏകദേശ കണക്ക് ഇത് നൽകുന്നു അതിനാൽ ശ്രദ്ധാപൂർവ്വം വികസനം നടത്തിയും സമഗ്രമായ ടെസ്റ്റിങ് നടത്തിയതിനുശേഷവും സോഫ്റ്റ്വെയറിൽ അവശേഷിക്കുന്ന ബഗുകളുടെ എണ്ണം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രധാന സാങ്കേതികതയാണ് എറർ സീഡിംഗ് അതിനാൽ ഞങ്ങൾ ഈ സെഷൻ ഈ ഘട്ടത്തിൽ നിർത്തി അടുത്ത സെഷനിൽ ഈ പോയിന്റ് മുതൽ തുടരും